ഒരു ഡിവൈഡ് ആൻഡ് കോൺക്വേർ രീതി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് മെർജ് സോർട്ട് എന്ന് വിളിക്കുന്ന സോർട്ടിംഗ് അൽഗോരിതം നമ്മൾ നടപ്പിലാക്കി ഇപ്പോൾ നമ്മൾ n2 ഓർഡറുള്ള സോർട്ടിങ് രീതികളായ ഇൻസേർഷൻ സോർട്ട് സെലക്ഷൻ സോർട്ട് എന്നിവയെക്കാൾ മികച്ചതായാണോ മെർജ് സോർട്ട് പെരുമാറുക എന്ന് വിശകലനം ചെയ്യുകയാണ് മെർജ് സോർട്ട് വിശകലനം ചെയ്യുന്നതിന് നാം ആദ്യം മെർജ് എന്ന പ്രവർത്തനം തന്നെ നോക്കേണ്ടതുണ്ട് ഓർക്കുക രണ്ട് തരം ലിസ്റ്റുകൾ മെർജ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ലിസ്റ്റുകളും അടുത്തടുത്തായി എടുത്ത് ഓരോ ലിസ്റ്റിന്റെയും തലപ്പത്തുള്ള രണ്ട് എലെമെന്റുകളിൽ ചെറുത് അന്തിമ ലിസ്റ്റ് C യിലേക്ക് പകർത്തുന്നു കഴിഞ്ഞ തവണ നമ്മൾ എഴുതിയ കോഡ് ഇതായിരുന്നു അടിസ്ഥാനപരമായി നമുക്ക് ഒരു ലിസ്റ്റ് A ഉണ്ട് ഇതിന് 0 മുതൽ m 1 വരെ സ്ഥാനങ്ങളുണ്ട് നമുക്ക് മറ്റൊരു ലിസ്റ്റ് B ഉണ്ട് ഇതിന് 0 മുതൽ n 1 വരെ സ്ഥാനങ്ങളുണ്ട് 0 മുതൽ mn 1 വരെ സൂചികകളുള്ള മൂന്നാം ലിസ്റ്റ് C യിൽ നമ്മൾ ഔട്ട്പുട്ട് ശേഖരിക്കുന്നു A B C എന്നീ ലിസ്റ്റുകളിൽ ഉപയോഗിക്കുന്നതിനായി നമ്മൾ യഥാക്രമം i j k എന്നിങ്ങനെ സൂചികകൾ ഉപയോഗിക്കുന്നു നമ്മൾ ഈ രണ്ട് മൂല്യങ്ങൾ താരതമ്യം ചെയ്യുന്നു രണ്ട് മൂല്യങ്ങളിൽ ചെറുത് എടുത്ത് C യിലേക്ക് മാറ്റുന്നു തുടർന്ന് i j എന്നീ സൂചികകളിൽ ശരിയായത് നീക്കുന്നു k എല്ലായ്പോഴും നീങ്ങുന്നു അതിനാൽ ഇതിന് എത്ര സമയമെടുക്കും എന്നതാണ് ചോദ്യം ഓരോ ആവർത്തനത്തിലും നമ്മൾ C യിലേക്ക് ഒരു ഘടകം ചേർക്കുന്നു C യുടെ വലുപ്പം കൃത്യമായി mn ആണ് കാരണം A യിൽ m ഘടകങ്ങളും B യിൽ n ഘടകങ്ങളുമൂണ്ട് അവ ഓരോന്നും ഒടുവിൽ C യിൽ എത്തും അതിനാൽ C യിൽ mn ഘടകങ്ങളുണ്ട് ഈ ലൂപ്പിന്റെ ഓരോ ആവർത്തനത്തിലും ഒരു ഘടകം C യിൽ ചേർക്കുന്നു ഒന്നുകിൽ ഈ if ൽ അല്ലെങ്കിൽ ഈ if ൽ k യുടെ വാല്യൂ വർദ്ധിപ്പിക്കുന്നു k യുടെ മൂല്യം എല്ലാ ആവർത്തനത്തിലും പുരോഗതി കൈവരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ലൂപ്പിന് mn സ്റ്റെപ്പുകൾ ഉണ്ട് ലൂപ്പിൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം എണ്ണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് ഒരു താരതമ്യം ഉണ്ട് നമുക്ക് ഒരു താരതമ്യം കൂടി ഉണ്ടായേക്കാം നമുക്ക് ഒരു അസ്സൈന്മെന്റും മറ്റും ഉണ്ട് എന്നാൽ ഏഴ് ഘട്ടങ്ങളിൽ കൂടുതൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം അതിനാൽ ഏത് ബ്രാഞ്ചിലാണ് നമ്മൾ ഇത് എടുത്തത് എന്ന് പരിഗണിക്കാതെ ഒരു നിശ്ചിത എണ്ണം സ്റ്റെപ്പുകൾ ചെയ്യും അതിനാൽ ഇവിടെ mn ഇറ്ററേഷനുകൾ നടക്കുന്നുണ്ട് ഓരോന്നിനും ഒരു നിശ്ചിത എണ്ണം സ്റ്റെപ്പുകളുമുണ്ട് നമുക്ക് മൊത്തത്തിൽ ഓർഡർ mn സ്റ്റെപ്പുകൾ ഉണ്ട് പക്ഷേ mn തീർച്ചയായും പരമാവധി mn ന്റെ 2 മടങ്ങ് എന്ന പരിധിക്കുള്ളിലാണ് അതിനാൽ ഈ കാര്യം പരമാവധി mn ഓർഡർ എടുക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും മെർജ് സോർട്ട്ന്റെ കാര്യത്തിൽ m ഉം n ഉം ഏകദേശം തുല്യമാണ് കാരണം നമ്മൾ എല്ലായ്പോഴും ലിസ്റ്റിനെ പകുതിയായാണ് വിഭജിക്കുന്നത് ഇതിൽ നിന്നും മെർജിങ് ഒരു രേഖീയ സമയ പ്രവർത്തനമാണെന്ന് നമുക്ക് കാണാം അതുകൊണ്ട് രണ്ടു ലിസ്റ്റുകൾ മെർജ് ചെയ്യുവാനാവശ്യമായ സമയം രണ്ടു ലിസ്റ്റുകളുടെയും ദൈർഘ്യത്തിന്റെ തുകയ്ക്ക് ആനുപാതികമാണെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ മെർജ് സോർട്ട് പരിഗണിക്കുമ്പോൾ നമ്മൾ n സൈസുള്ള ഒരു ലിസ്റ്റ് എടുക്കുന്നു അത് n2 സൈസുള്ള രണ്ട് ലിസ്റ്റുകളായി വിഭജിക്കുന്നു പിന്നെ ഇവ വെവ്വേറെ സോർട്ട് ചെയ്യുന്നു തുടർന്ന് അവ മെർജ് ചെയ്ത് ഒറ്റ ലിസ്റ്റാക്കി മാറ്റുന്നു ഇത് ചെയ്യുന്നതിന് n എന്ന വലുപ്പത്തിലുള്ള ഇൻപുട്ടിന് മെർജ് ചെയ്യാൻ t സമയമെടുക്കുമെന്ന് കരുതിയാൽ നമുക്ക് n2 ന്റെ രണ്ട് ലിസ്റ്റുകൾ സോർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കണ്ടതുപോലെ അത് മെർജ് ചെയ്യൂന്നതിന് ഓർഡർ n സമയമെടുക്കും ഇപ്പോൾ ഈ t വ്യക്തമായി കണക്കുകൂട്ടാൻ n എന്നത് 2 ന്റെ ഒരു പവർ ആണെന്ന് നമ്മൾ അനുമാനിക്കും മെർജ് സോർട്ട് ചെയ്യുന്നതിന് n 2ന്റെ പവറോ ഒരു ഇരട്ടസംഖ്യ പോലുമോ ആയിരിക്കേണ്ടതില്ല n ഇരട്ട സംഖ്യയല്ലെങ്കിൽ വിഭജിക്കുമ്പോൾ രണ്ടു ഭാഗങ്ങളും തുല്യമായിരിക്കില്ല എന്ന് മാത്രമേയുള്ളൂ കാരണം നമുക്ക് ഒരു ഒറ്റ സംഖ്യയെ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ കഴിയില്ല പക്ഷേ അത് പ്രശ്നമല്ല അൽഗോരിതം ഇപ്പോഴും ശരിയായി പ്രവർത്തിക്കും n 2k ആണെന്നുള്ള ഈ അനുമാനം ഒരു നല്ല കണക്കുകൂട്ടൽ കൊണ്ട് വരാൻ മാത്രം നമുക്ക് ഒരു പ്രാധാന്യമുള്ളതാണ് നമുക്ക് n2 ദൈർഘ്യമുള്ള രണ്ട് പ്രോബ്ലെങ്ങൾ ഉണ്ട് tn2 ന്റെ 2 മടങ്ങ് പിന്നെ n ഉള്ള മെർജ് ഉണ്ട് അത് എങ്ങനെ പരിഹരിക്കും റഫർ സമയം 0400 നമ്മുടെ ബേസ് കേസ് പറയുന്നത് നമുക്ക് ഒരു എലമെന്റ് മാത്രമുള്ളപ്പോൾ അത് പരിശോധിക്കാനാവശ്യമായതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല എന്നാണ് അതിനാൽ t നിശ്ചിതമാണ് നിങ്ങൾക്ക് പ്രോബ്ലെത്തിന്റെ പരിഹാരമായി ഇതുപോലുള്ള ഒരു ആവിഷ്കാരം ഇതുപോലുള്ള രണ്ട് റെക്കരൻസുകൾ ഉണ്ടെങ്കിൽ അവ എങ്ങനെ പരിഹരിക്കുമെന്നു നോക്കാം അതിനുള്ള അടിസ്ഥാന ആശയം ഏറ്റവും ലളിതമായ മാർഗ്ഗം നിലനിർത്തുക എന്നതാണ് തീർച്ചയായും നമ്മൾ ഇപ്പോൾ ശ്രമിച്ചിട്ടില്ലാത്ത കൂടുതൽ സങ്കീർണമായ വഴി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും പക്ഷേ ഒരു ലളിതമായ മാർഗ്ഗം നിങ്ങൾ ബേസ് കേസിലേക്ക് വരുന്നതുവരെ ഒരേ വിശകലനം അതേ ആവിഷ്കാരം ഉപയോഗിച്ച് വികസിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അതിനാൽ നമ്മൾ അടിസ്ഥാന കേസ് t 1 ന് തുല്യമാണ് എന്നതിൽ നിന്ന് ആരംഭിക്കുന്നു ഇവിടെ പൊതുവായ കേസ് t എന്നത് 2 മടങ്ങ് tn2 n ആണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് tn2 വിപുലീകരിക്കാൻ അതേ സമവാക്യം ഉപയോഗിക്കാം നമ്മൾ tn2 വികസിപ്പിക്കുന്നു അപ്പോൾ tn2 2 മടങ്ങ് tn4 n2 ആകുന്നതായി കാണാം കാരണം n2 2 എന്നാൽ n4 n ന് പകരം n2 ആകുന്നു ഇപ്പോൾ ഞാൻ ഇത് ശ്രദ്ധാപൂർവ്വം വികസിപ്പിക്കുകയാണെങ്കിൽ ഈ 2 ഉം 2 ഉം 4 ആയി എഴുതുകയല്ലാതെ ഞാൻ ഇത് 22 ആയി എഴുതും ഈ 4 വീണ്ടും 22 ആണെന്ന് എഴുതിയാൽ ഉപയോഗപ്രദമാകും അതായത് ഈ n2 വിനെ കൊണ്ട് 2 കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ എനിക്ക് 2 മടങ്ങ് n2 ലഭിക്കും അതായത് nn n അതിനാൽ എനിക്ക് 2n ലഭിക്കും 22 വന്നത് ഒരു യാദൃശ്ചികതയല്ല എന്ന് കുറച്ചു സ്റ്റെപ്പുകൾ കൂടി മുന്നോട്ടുപോകുമ്പോൾ നാമറിയും ഇപ്പോൾ ഞാൻ tn22 എന്ന ഈ എക്സ്പ്രഷൻ എടുക്കുകയും ഇവിടെ ഇതേ നിയമം പ്രയോഗിക്കുകയും ചെയ്താൽ ഈ tn22 ഇതുപോലെ വികസിക്കുന്നു ഇത് n222n2 ആണ് അതിനാൽ എനിക്ക് 2 മടങ്ങ് n2 മുതൽ n22 ലഭിക്കും ഇപ്പോൾ ഇതും ഇതും റദ്ദാക്കപ്പെടും അതിനാൽ എനിക്ക് ഇവിടെ 1n ലഭിക്കും എനിക്ക് ഇതിനകം 2n ഉണ്ട് അതിനാൽ എനിക്ക് 3n ലഭിക്കുന്നു ഇവിടെ 2 x 22 23 ആയി എഴുതാം ഞാൻ 22 തവണ tn222n മുതൽ 23 തവണ tn233n വരെ പോകുന്നു അതിനാൽ ഇത് j തവണ ചെയ്താൽ നമുക്ക് 2j തവണ tn2 jjn ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ എളുപ്പമാണ് അതിനാൽ n2j 1ലേക്ക് പോകുമ്പോൾ നമ്മൾ ബേസ് കേസിലെത്തും ഇത് എപ്പോൾ സംഭവിക്കും n2j 1 ന് തുല്യമാണ് അതിനർത്ഥം 2j n ന് തുല്യമാണ് എന്നാണ് അതിനാൽ j log2 അല്ലാതെ മറ്റൊന്നുമല്ല log2 വിന് പകരമായി നമ്മൾ എല്ലായ്പ്പോഴും log എന്ന് പൊതുവായി ഉപയോഗിക്കും log ഘട്ടങ്ങൾക്ക് ശേഷം ഇതുപോലുള്ള എന്തിലെങ്കിലും നമ്മൾ അവസാനിപ്പിക്കും ഇത് 2jtn2j ആണ് log സ്റ്റെപ്പുകൾക്ക് ശേഷം j എന്നത് log ആണ് അതായത് 2log അപ്പോൾ n എന്നാൽ t ഇത് ഇപ്പോൾ t ആണ് അതായത് ഇത് 1 അതിനാൽ ഈ എക്സ്പ്രഷൻ log തവണ ചെയ്തതിനുശേഷം ലഭിക്കുന്നത് 2loglog തവണ n ആണ് 2log നിർവ്വചനപ്രകാരം വെറും n ആണ് അതാണ് നിങ്ങൾക്ക് n നൽകുന്ന 2 ന്റെ ഘടകം ആയ ലോഗിന്റെ നിർവചനം അതിനാൽ ഇത് n ആണ് ഇത് n log n നൽകുന്നു അതിനാൽ ഇത് 2 തവണ n log n കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ മൊത്തത്തിൽ മെർജ് സോർട്ട് O സമയം എടുക്കുമെന്ന് നമുക്ക് പറയാം അതിനാൽ ഇവിടെ നമ്മൾ ഗണ്യമായ പുരോഗതി കൈവരിച്ചുവെന്ന് പറയാം കാരണം ഇതുവരെ നമ്മൾ കണ്ട ഇൻസെർഷൻ സോർട്ടിന്റെയും സെലെക്ഷൻ സോർട്ടിന്റെയും സമയങ്ങൾ O ആയിരുന്നു ഇപ്പോൾ Oൽ നിന്ന് O ലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് വലിയ കാര്യമാവുന്നത് O നെക്കാൾ O കൂടുതൽ കാര്യക്ഷമമാണെന്ന് നമ്മൾ തുടക്കത്തിൽ കണ്ടു ന്യായമായ വേഗതയുള്ള ഒരു സാധാരണ ഡെസ്ക്ടോപ്പിന് സെക്കൻഡിൽ 108 പ്രവർത്തനങ്ങൾ ചെയ്യാനാകുമെന്ന് കരുതിയാൽ ഒരു സോർട്ടിംഗ് അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യക്ഷമമായ ഇൻപുട്ടിന്റെ വലുപ്പം ഒരു O അൽഗോരിതത്തിന് 10000 ആണെങ്കിൽ ഒരു O അൽഗോരിതത്തിന് 1 കോടിയാണ് അതിനാൽ നിങ്ങൾക്ക് ശരിക്കും വലിയ അളവിലുള്ള ഡാറ്റ സോർട്ട് ചെയ്യേണ്ടിവന്നാൽ O അൽഗോരിതം അത് നമുക്ക് ന്യായമായ സമയത്തിൽ പ്രായോഗികമാക്കുന്നു അതേസമയം O അൽഗോരിതങ്ങൾ നമ്മൾ മുമ്പ് കണ്ടതുപോലെ വർഷങ്ങൾ എടുക്കും ഈ അൽഗോരിതത്തിന്റെ ചില നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മെർജ് സോർട്ടിൽ നമ്മൾ ഉപയോഗിച്ച ഈ മെർജ് ഫങ്ഷൻ വാസ്തവത്തിൽ ഏതു സോർട്ട് ചെയ്യപ്പെട്ട ലിസ്റ്റിലും വളരെ ഉപകാരപ്രദമായ പ്രവർത്തനമാണ് മെർജിൽ നമ്മൾ ഒന്നും നഷ്ടപ്പെടാതെയാണ് ലിസ്റ്റുകൾ സംയോജിപ്പിക്കുന്നത് അതായത് നമ്മൾ രണ്ട് ലിസ്റ്റുകൾ ഉദാഹരണത്തിന് 1 2 4 എന്നതും 2 3 6 എന്നതും മെർജ് ചെയ്യൂകയാണെങ്കിൽ അവസാന ലിസ്റ്റിൽ നമുക്ക് 1 2 2 3 4 6 ഉണ്ടാകും കാരണം ഇൻപുട്ടിൽ 2ന്റെ 2 കോപ്പികൾ ഉണ്ട് ചിലപ്പോൾ നമുക്ക് ഇത് ആവശ്യമുണ്ടായിരിക്കില്ല ലിസ്റ്റുകളെ സെറ്റുകൾ പോലെ പരിഗണിച്ച് ഓരോ വാല്യൂവിന്റേയും ഒരു കോപ്പി മാത്രം കിട്ടിയാൽ മതിയാകും അതായത് സെറ്റ് 1 2 4 സെറ്റ് 2 3 6 എന്നിവയുടെ യൂണിയൻ 1 2 3 4 6 ആണ് നമ്മുടെ മെർജ് സോർട്ടിൽ അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും നേരത്തെ നമുക്ക് രണ്ട് കേസുകളുണ്ടായിരുന്നു ആദ്യത്തേതിൽ Ai Bj നേക്കാൾ കുറവോ തുല്യമോ ആയിരുന്നു അടുത്തതിൽ Ai Bj യെക്കാൾ വലുതായി ആദ്യ സന്ദർഭത്തിൽ നമ്മൾ Ai ൽ നിന്ന് പകർത്തി രണ്ടാമത്തെ കേസിൽ Bj ൽ നിന്ന് പകർത്തി ഒന്നുകിൽ നമ്മൾ k യോടൊപ്പം i അല്ലെങ്കിൽ j മാത്രം വർദ്ധിപ്പിച്ചു ഈ സാഹചര്യത്തിൽ രണ്ട് വശങ്ങളും തുല്യമാണെങ്കിൽ അതിന്റെ ഒരു പകർപ്പ് അന്തിമ പട്ടികയിൽ നമ്മൾ സൂക്ഷിക്കുന്നു എന്നാൽ ഈ രണ്ട് പകർപ്പുകളും നമ്മൾ ഒഴിവാക്കുന്നു നമ്മൾ മൂന്ന് പോയിന്ററുകളും വർദ്ധിപ്പിക്കുന്നു ഈ സ്ഥാനവും ഈ സ്ഥാനവും ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിന് ഒരേ മൂല്യങ്ങളുടെ ഒരു പകർപ്പ് മാത്രമേ ഉണ്ടാകൂ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം രണ്ട് ലിസ്റ്റുകളുടെ ഇന്റർസെക്ഷൻ കാണുക എന്നതാണ് നമുക്ക് ഇവിടെയും ലിസ്റ്റ് 1 2 3 ലിസ്റ്റ് 2 3 6 എന്നിവ ഉണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ 2 ഉം 3 ഉം മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതിനായി ലിസ്റ്റുകളെ നോക്കുമ്പോൾ തുല്യമല്ലാത്ത നമ്പറുകൾ ഉപേക്ഷിക്കണം ഈ ലിസ്റ്റുകളിൽ 2 ഇപ്പോഴും അവിടെ ഉണ്ടായിരിക്കാം കാരണം 1 ചെറുതാണ് അതിനാൽ നമ്മൾ ഈ പോയിന്റർ വലത്തേക്ക് നീക്കുന്നു Ai Bj നേക്കാൾ ചെറുതാണെങ്കിൽ i വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ Ai Bj എന്നിവ ഒന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിയനുവേണ്ടി ചെയ്തതുപോലെ ആ 2 പുറത്തേക്ക് നീക്കും മെർജ് ചെയ്യും തുടർന്ന് നമ്മൾ രണ്ട് പോയിന്ററുകളും നീക്കംചെയ്യും അതിനാൽ ഇപ്പോൾ രണ്ട് പോയിന്ററുകളും ഈ സ്ഥാനത്തേക്ക് വരുന്നു ഇപ്പോൾ നമുക്ക് 3 ഉള്ളതിനാൽ ഇത് തുടരും മറ്റൊരു രീതിയിൽ നോക്കിയാൽ Bj Ai നേക്കാൾ ചെറുതാണെങ്കിൽ ഞങ്ങൾ i അല്ല j യാണ് വർദ്ധിപ്പിക്കുക ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മെർജ് എന്നത് വളരെ സാധാരണമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ നേരത്തെ ചെയ്തത് നമുക്ക് ചെയ്യാൻ കഴിയും അതായത് യഥാർത്ഥത്തിൽ സോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് ലിസ്റ്റുകൾ ഒരു വലിയ സോർട്ട് ചെയ്ത ലിസ്റ്റിലേക്ക് മാറ്റുക എന്നത് ലിസ്റ്റിലെ എലെമെന്റുകൾ നഷ്ടമാകാത്തപ്പോൾ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ നീക്കംചെയ്യാൻ കഴിയുമ്പോഴാണ് ഒരു സെറ്റ് യൂണിയൻ ഓപ്പറേഷനായി പരിഗണിക്കുക അല്ലെങ്കിൽ സാധാരണ ജോഡികൾ മാത്രമേ നമുക്ക് നിലനിർത്താൻ കഴിയൂ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കാൻ ഒരുപക്ഷേ നിങ്ങൾ ഇനിപ്പറയുന്ന എക്സർസൈസസ് പരീക്ഷിക്കണം സെറ്റ് വ്യത്യാസം എന്ന് വിളിക്കപ്പെടുന്ന പ്രവർത്തനം ചെയ്യുന്നുവെന്ന് കരുതുക സെറ്റ് വ്യത്യാസം ഇങ്ങനെ വിശദമാക്കാം ഞാൻ സെറ്റ് A 1 2 3 സെറ്റ് B 3 4 6 എന്നിവ എടുക്കുകയും സെറ്റ് വ്യത്യാസം A B കാണാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ അത് A യിൽ ഉള്ളതും പക്ഷേ B യിൽ ഇല്ലാത്തതും ആയവയാണ് അതിനാൽ ഉത്തരം ഈ സാഹചര്യത്തിൽ 1 ഉം 2 ഉം ആയിരിക്കണം ലിസ്റ്റിനായി നമുക്ക് ഇതുതന്നെ ചെയ്യാം ഉദാഹരണത്തിന് എനിക്ക് ലിസ്റ്റ് 1 2 3 ലിസ്റ്റ് 3 4 6 എന്നിവ ഉണ്ടെങ്കിൽ ഇവതമ്മിലുള്ള വ്യത്യാസമായ 1 2 മാത്രമുള്ള ലിസ്റ്റ് ഉണ്ടാക്കണം ഇതിനായി യൂണിയൻ ഇന്റർസെക്ഷൻ എന്നിവക്കായി മെർജ് ഉപയോഗിച്ചതുപോലെ ഇവിടെയും ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കണം മെർജ് സോർട്ട് എന്നത് ഒരു O സോർട്ടിംഗ് അൽഗോരിതം ആണ് അതിനാൽ ഇത് ഇൻസെർഷൻ സെലെക്ഷൻ എന്നീ സോർട്ടിങ് രീതികളെക്കാൾ വളരെ വേഗതയുള്ളതാണ് എന്നിരുന്നാലും ഇതിന് ചില ന്യൂനതകളുണ്ട് മെർജ് സോർട്ടിന്റെ പ്രധാന പ്രശ്നം അതിന് അധിക സ്ഥലം ആവശ്യമാണ് എന്നതാണ് നോക്കൂ ഞാൻ A യും B യും എടുത്ത് C യിൽ ലയിപ്പിക്കുമ്പോൾ മെർജ് അറയെ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കാതെ ഇത് ചെയ്യുന്നത് മിക്കവാറും അസാധ്യമാണ് കാരണം മെർജിങ് ശരിയായി ചെയ്യുകയാണെങ്കിൽ A B എന്നിവ അടുക്കിയിരിക്കുന്ന ക്രമത്തിൽ ലയിപ്പിക്കപ്പെടും അല്ലെങ്കിൽ അവയെല്ലാം മാറ്റിക്കൊണ്ടിരിക്കണം അതിനാൽ മെർജ് ലീനിയർ സമയത്തെക്കാൾ വലുതായിരിക്കും A B എന്നിവ ലീനിയർ സമയത്തിൽ മെർജ് ചെയ്യണമെങ്കിൽ ഇത് സംഭരിക്കുന്നതിന് രണ്ട് ലിസ്റ്റുകളുടെ തുകയുടെ വലുപ്പമുള്ള മറ്റൊരു ലിസ്റ്റ് ഉപയോഗിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിനർത്ഥം നിങ്ങൾ വലിയ അറേകൾ സോർട്ട് ചെയ്യുന്നുവെങ്കിൽ അധിക സ്ഥലവും ഉപയോഗിക്കുന്നു മെർജ് സോർട്ടിനെക്കുറിച്ച് മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം അത് സ്വാഭാവികമായും റെക്കേർസിവ് ആണെന്നുള്ളതാണ് ഇത് എളുപ്പത്തിൽ ഇറ്ററേറ്റിവ് ആക്കാൻ ഒരു വഴിയുമില്ല കാരണം നമുക്ക് അറേകളെ ആദ്യം സോർട്ട് ചെയ്തതിനുശേഷം അവയെ ലയിപ്പിക്കേണ്ടതുണ്ട് സംയോജിപ്പിക്കുന്നതിന് ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ റെക്കേർസിവ് സൊല്യൂഷൻ സംഭരിക്കേണ്ടതുണ്ട് റെക്കേർസിവ് കോളും റിട്ടേണും ചെലവേറിയതുമാണ് അതിനാൽ മെർജ് സോർട്ട് അതിന്റെ കുറഞ്ഞ കോംപ്ലക്സിറ്റി കാരണം വളരെ ആകർഷണീയമായതാണെങ്കിലും ഈ പരിമിതികൾ കാരണം പലപ്പോഴും ഉപയോഗിക്കാറില്ല മറ്റേതെങ്കിലും വിധത്തിൽ ഇത് എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് നോക്കാം മെർജ് സോർട്ടിന് നമുക്ക് അധിക സ്ഥലം ആവശ്യമുള്ളതിന്റെ പ്രധാന കാരണം മെർജ് പ്രക്രിയയാണ് നമ്മൾ കണ്ടതുപോലെ A B എന്നിവ ലീനിയർ സമയത്തിൽ ഒരു ലിസ്റ്റായി C യിൽ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്ക് അധിക സ്ഥലം ആവശ്യമാണ് ഇപ്പോൾ ഇടത് വശത്ത് 2 4 6 എന്നും വലതുവശത്ത് 1 3 5 എന്നും ഉണ്ടെന്ന് കരുതുക ഇപ്പോൾ നമുക്ക് ഇരുവശത്തുനിന്നും കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട് അതിനാൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണം പിന്നെ എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണം പിന്നെ എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണം അങ്ങനെ പലതും രണ്ടു പകുതികളും സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടത് വശത്തുള്ളവ വലത്തോട്ടും വലതുവശത്തുള്ളവ ഇടത്തോട്ടും പോകണം ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ചുവന്ന ഭാഗത്തുള്ളതെല്ലാം പച്ച ഭാഗത്തിനുള്ളിലുള്ളതിനേക്കാൾ ചെറുതായിരിക്കും ഒരിക്കൽ ഞാൻ ചുവന്ന ഭാഗവും പച്ചഭാഗവും സോർട്ട് ചെയ്തുകഴിഞ്ഞാൽ ചുവന്ന ഭാഗത്തുള്ളതെല്ലാം പച്ച ഭാഗത്തുള്ള എല്ലാറ്റിന്റെയും ഇടതുവശത്തായിരിക്കും ആരംഭത്തിൽ എനിക്ക് ഇടത് വശത്ത് 2 1 3 എന്നും വലതുവശത്ത് 6 4 5 എന്നും ഉണ്ടെന്നും ഞാൻ ഈ കാര്യങ്ങൾ സോർട്ട് ചെയ്തുവെന്നും കരുതുക അതിനാൽ എനിക്ക് ഇടത് വശത്ത് 1 2 3 ലഭിച്ചു തുടർന്ന് ഇവിടെ എനിക്ക് 4 5 6 ലഭിച്ചു അതിനുശേഷം ഇടതുവശത്തുള്ളതെല്ലാം വലതു വശത്തുള്ളതിനേക്കാൾ ചെറുതാണെന്ന് ഉറപ്പുനൽകുകയാണെങ്കിൽ വിഭജിക്കുക തുടർന്ന് സംയോജിപ്പിക്കുക എന്നിവയൊന്നും ആവശ്യമില്ല അതിനാൽ അടുത്ത സോർട്ടിംഗ് അൽഗോരിതം ഈ ആശയം നടപ്പിലാക്കുന്നതിനുള്ള തന്ത്രം നോക്കും